പ്രൊഫസർബാലഹായ് പ്രൊഫസർ അശ്വിൻ ബാലനിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ കോഴ്സ് പഠിപ്പിക്കുകയാണോ പ്രൊഫസർബാലകോഴ്സ് ഡിസൈൻ തിങ്കിംഗ് പ്രൊഫസർഅശ്വിൻഅതെ തീർച്ചയായും അതിനു വേണ്ടിയാണ്നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഡിസൈൻ തിങ്കിംഗ് കോഴ്സ് പഠിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊഫസർബാല ഞാൻ ഒരു ഗെയിം കളിക്കുന്നു അങ്ങനെ കളിക്കുമ്പോൾ ഈ ഗെയിം കളിക്കുന്ന കുട്ടികളുമായി തന്മയി ഭവിക്കാൻ എനിക്ക് കഴിയുന്നു ഇന്നത്തെ കാലത്ത് കുട്ടികൾ വളരെ അധികം നേരം ഉപകരണങ്ങളുപയോഗിച്ച് കളിക്കുന്നു അതുകൊണ്ട് ഞാൻ അവരുമായി താദാത്മ്യം പ്രാപിക്കാൻ ശ്രമിക്കുന്നു സ്ലൈഡ് നോക്കുക ഡിസൈൻ എന്നതിൽ നാല് സ്റ്റെപ്പുകൾ ഉണ്ട് ഒന്നാമത്തെ ഘട്ടം തന്മയിഭവി ക്കുക എന്നുള്ളതാണ് പ്രൊഫസർ അശ്വിൻ നിങ്ങൾ ഡിസൈൻ തിങ്കിംഗ് ഫിലോസഫി ഉപയോഗിച്ച് ചെറിയ കുട്ടികൾക്കുള്ള ഒരു ഗെയിം ഡിസൈൻ ചെയ്യുകയാണോ അത് വളരെ നല്ലതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഗെയിം ഉപയോഗിക്കുന്ന ആളുകളുമായി താതാത്മ്യം പ്രാപിക്കുക ആണ് നിങ്ങൾ ഗെയിം കളിക്കുന്നു അത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ ആ ഗെയിം ഉപയോഗിക്കുന്ന കുട്ടികളുമായി താദാത്മ്യം പ്രാപിക്കുന്നു പ്രൊഫസർ ബാലആ പ്രൊഫസർ അശ്വിൻശരി ഗെയിം കളിക്കുന്നത് നല്ലത് തന്നെ നിങ്ങൾ ഔട്ട് സൈഡിൽ പോയി കൊച്ചുകുട്ടികളെ നിരീക്ഷിക്കണം സംസാരിക്കണം അങ്ങനെ ചെയ്ത് അവരെ നന്നായി മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഡിസൈൻസ് തിങ്കിംഗ് ഒന്നാമത്തെ ഘട്ടം മുഴുവനാക്കാൻകഴിയുന്നതാണ് പ്രൊഫസർ ബാലok ഞാൻ അത് ചെയ്യും അത് രണ്ടാമത്തെ ഘട്ടമാണ് ഒന്നാമത്തെ ഘട്ടം തന്മയിഭവിക്കുക എന്നുള്ളതാണ് പ്രൊഫസർ അശ്വിൻ തീർച്ചയായും വളരെ രസം ആയിരിക്കുന്നു പ്രൊഫസർ ബാല അതെ വളരെ അധികംരസം പ്രൊഫസർ അശ്വിൻവളരെയധികം പ്രൊഫസർ ബാലവാസ്തവത്തിൽ താങ്കളുടെ സംസാരമാണ് ബഹുരസം പ്രൊഫസർ അശ്വിൻ ഗെയിം തുടരുക ഈ ഗെയിം മുഴുവനായി മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ പുറത്തുപോയി സംസാരിക്കുക അങ്ങനെഅടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക പ്രൊഫസർ ബാലഅടുത്ത ഘട്ടം വിശകലനം ചെയ്യുക എന്നുള്ളതാണ് Slide നോക്കുക പ്രൊഫസർ അശ്വിൻ നിങ്ങൾ നിരീക്ഷിക്കണം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നിട്ട് അതിനെ വിശകലനം ചെയ്യണം എന്തുകൊണ്ടാണ് വളരെ അധികം മണിക്കൂറുകൾ കുട്ടികൾ ഇത്തരത്തിലുള്ള ഗെയിം കളിക്കുന്നത് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് കാര്യം എന്താണ്കുട്ടികൾക്ക് ഗെയിം കളിക്കുമ്പോൾ സന്തോഷം നൽകുന്നത് അതിനെ പറ്റി ചിന്തിക്കണം നിങ്ങൾ വളരെയധികം നേരമായി ഗെയിം കളിക്കുന്നു നല്ല സ്കോർ ലഭിച്ചിരിക്കുന്നു ഈ ഗെയിം കളിക്കുമ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സ്കോർ എന്നതിനേക്കാൾ അധികം സ്കോർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത സ്റ്റേജ് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് പ്രൊഫസർ ബാലഎൻറെ കുട്ടി ഇത്കളിക്കുവാൻ എന്നെ അനുവദിക്കാറില്ല പ്രൊഫസർ അശ്വിൻശരിയാണ് നിങ്ങള് ഈ ഗെയിം കളിക്കാൻ കുട്ടിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടോ പ്രൊഫസർ ബാലഎൻറെ കുട്ടിയുടെ അടുത്ത് ഞാൻ ഇത് കളിച്ചു എന്ന് സംസാരിക്കരുത് പ്രൊഫസർ അശ്വിൻ നിങ്ങൾ വളരെയധികം പ്രശ്നത്തിൽ ആവുന്നതാണ് പ്രൊഫസർ ബാല അതെ പ്രൊഫസർ അശ്വിൻവിശകലനത്തിനു ശേഷവും നിങ്ങൾക്ക് ക്രിയേറ്റീവ്ഘട്ടത്തിലേക്ക് പോകാവുന്നതാണ് നിങ്ങൾ കാണാൻ പറ്റാവുന്ന രൂപമുള്ള ഒരു വസ്തുവിലേക്ക് എത്തിച്ചേരുന്നു അത് ഡിജിറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം പ്രോബ്ലം പരിഹരിക്കുവാൻ നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കുന്നു ശരിയല്ലേ പ്രൊഫസർ ബാലഅത് ശരിയാണെന്ന് തോന്നുന്നില്ല ടെസ്റ്റ് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഒരു സൊലൂഷൻ ഉണ്ടാകുന്നത് പ്രൊഫസർ അശ്വിൻ അത് പരിപൂർണ്ണമായ ശരിയാണ് നിങ്ങൾ കുട്ടികളുടെ അടുത്തേക്ക് പോകു നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് ഗെയിം ഡിസൈൻ ചെയ്യുന്നത് കുട്ടികൾക്ക് ഗെയിം കൊടുക്കുക എന്നിട്ട് നിരീക്ഷിക്കുക അത് എങ്ങനെയാണ് കളിക്കുന്നത് എന്ന കാര്യം അവരുടെ പ്രതികരണങ്ങൾ മനസ്സിലാക്കുക അത്ഭുതകരമായ ഒരു ഗെയിമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെയധികം മണിക്കൂർ നേരം കളിക്കാൻ സാധിക്കും വളരെ വേഗത്തിൽ ഫീഡ് ബാക്ക് ലഭിക്കുന്നതാണ് മടങ്ങി വരിക എന്നിട്ട് പുതിയ ഇൻഫർമേഷൻറെ അടിസ്ഥാനത്തിൽ ഡ്രോയിങ് ബോർഡിൻറെ അടുത്തേക്ക് ചെല്ലുക പ്രൊഫസർ ബാല ഞാൻ ഒരു തവണ കൂടി കളിക്കേണ്ടി വരും പ്രൊഫസർ അശ്വിൻഅതിൻറെ ആവശ്യമില്ല നിങ്ങൾ ഡിസൈൻ ചെയ്തു ഒരിക്കൽ കൂടി ഡിസൈൻ ചെയ്തു നിങ്ങൾ വീണ്ടും തന്മയിഭാവം പെട്ടു വിശകലനം ചെയ്തു ഉണ്ടാക്കിയ ആദ്യത്തെ ഡിസൈനിൽമാറ്റം വരുത്തി പ്രൊഫസർ ബാല പലപ്രാവശ്യവും ചെയ്യേണ്ടിവരും പ്രൊഫസർ അശ്വിൻപലപ്രാവശ്യം കൂടുതൽ പ്രാവശ്യം ചെയ്യുന്നുവോ അത്രകണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി വരും പ്രൊഫസർ ബാലഇതൊരു ഗെയിം പോലെ തോന്നിക്കുന്നു കൂടുതൽ കൂടുതൽ പ്രാവശ്യം ചെയ്യുക എന്നുള്ളത് പ്രൊഫസർ അശ്വിൻഅതെ തീർച്ചയായും ഒരു രസമുള്ള പ്രക്രിയയാണ് നാലു ഘട്ടങ്ങൾ ഉള്ള ഒരു പ്രക്രിയയാണ് പ്രൊഫസർ അശ്വിൻഅതെ ആദ്യം തന്മയിഭവം പെടുന്ന ഒരു ഘട്ടം പിന്നെ വിശകലനഘട്ടം പ്രൊഫസർ ബാലഅതേ വിശകലന ഘട്ടം പ്രൊഫസർ അശ്വിൻപിന്നെ പ്രശ്നപരിഹാര ഘട്ടം പ്രൊഫസർ ബാലപരിഹരിക്കുന്ന ഘട്ടം പ്രൊഫസർ അശ്വിൻപിന്നെ ഒരു ടെസ്റ്റിംഗ് ഘട്ടം പ്രൊഫസർ ബാലടെസ്റ്റ് പ്രൊഫസർ അശ്വിൻ നിങ്ങൾ ഈ എല്ലാ ഘട്ടങ്ങൾ കൂടിയും കടന്നു പോകേണ്ടിവരും ജനങ്ങളൊക്കെ ഈ ഗെയിംഅല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് വരെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗെയിം വാസ്തവത്തിൽ ആഗ്രഹിക്കുന്ന ഘട്ടംവരെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഘട്ടംവരെ ആഘട്ടത്തിൽ നിങ്ങൾക്ക് ഇത് വിൽക്കുവാനും വളരെയധികം സമ്പാദിക്കാനും കഴിയുന്നതാണ് പ്രൊഫസർ ബാലഗെയിം കളിക്കുവാനും പ്രൊഫസർ അശ്വിൻവളരെ വൈകിയിരിക്കുന്നു എനിക്ക് ഒരു ഫ്ലൈറ്റ് പിടിച്ചു പ്രധാനമന്ത്രിയെ കാണാൻ പോകേണ്ട ആവശ്യം ഉണ്ട് പ്രൊഫസർ ബാലWow പ്രൊഫസർ അശ്വിൻ പെട്ടെന്ന് മടങ്ങി വരുന്നതാണ് 8 ആഴ്ച കൊണ്ട് നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് കഴിയും എന്ന് വിചാരിക്കുന്നു ഞാന് റെക്കോർഡ് ചെയ്യുന്നതാണ് പ്രൊഫസർ അശ്വിൻഒരിക്കൽ കൂടി ഓർക്കുക 8 ആഴ്ച പ്രൊഫസർ ബാലഓക്കേ